അതിനാൽ നമ്മൾ സംസാരിക്കുന്ന അടുത്ത മൊഡ്യൂൾ ഫിനിറ്റ് എലമെന്റ് രീതിയാണ് അതിനാൽ പരിമിതമായ മൂലക രീതിയാണ് വലത് ഫിനൈറ്റ് എലമെന്റ് മെത്തേഡ് എന്ന വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇത് എഞ്ചിനീയറിംഗിന്റെ പല ശാഖകളിലും ഒരു സാധാരണ രീതിയാണ് അതിനാൽ അവലോകന അവകാശത്തിന് കീഴിൽ വരുന്ന ഈ ഫീൽഡിന്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്ന എല്ലായിടത്തും ഫിനിറ്റ് എലമെന്റ് രീതിയുടെ ഹ്രസ്വ രൂപം FEM ആണ് ഇത് താരതമ്യേന സമീപകാല രീതിയാണ് ഇത് വളരെ പഴയതല്ല എന്ന അർത്ഥത്തിൽ തീർച്ചയായും നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഭാഗിക ഡിഫറൻഷ്യൽ സമവാക്യം ഭാഗിക ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിനായി 40 കളിൽ വീണ്ടും അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ വ്യക്തിയാണ് പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ കൂറന്റ് എഞ്ചിനീയറിംഗ് സമൂഹം ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് 60 കളിൽ മാത്രമാണ് അതിനാൽ ഇത് താരതമ്യേന പുതിയതാണെന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് അതാണ് ഒടുവിൽ അത് എന്താണ് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ നിശ്ചിത അതിർത്തി വ്യവസ്ഥകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനുള്ള ഒരു രീതിയാണ് ഞാൻ അർത്ഥമാക്കുന്നത് അവിഭാജ്യ സമവാക്യങ്ങളെ സംബന്ധിച്ച മുൻ മാതൃകയും ഇതുതന്നെയായിരുന്നു അതിനാൽ സ്വാഭാവികമായും നമ്മൾ ഇതിനകം പഠിച്ച കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യത്യാസങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഞങ്ങൾ നോക്കിയ അവിഭാജ്യ സമവാക്യങ്ങളിൽ ഗണിതശാസ്ത്രപരമായി കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്ന് ഗ്രീനിന്റെ പ്രവർത്തനമായിരുന്നു കാരണം അതിന് ഏകത്വവും അതെല്ലാം ശരിയുമാണ് അതിനാൽ എഫ്ഇഎമ്മിലെ ഗ്രീനിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നല്ല വാർത്ത അവിടെ ഇല്ല എന്നതാണ് വാസ്തവത്തിൽ എഫ്ഇഎമ്മിനായുള്ള ഗ്രീനിന്റെ ഫംഗ്ഷനുകൾ ഞങ്ങൾ അറിയേണ്ടതില്ല ഗ്രീനിന്റെ പ്രവർത്തനമില്ലാതെയാണ് എഫ്ഇഎം രൂപപ്പെടുത്തിയിരിക്കുന്നത് വാസ്തവത്തിൽ ഇത് ഒരു സമഗ്ര സമവാക്യമല്ല അതിനാൽ ആരംഭ പോയിന്റ് തന്നെ വ്യത്യസ്തമാണ് മാക്സ്വെല്ലിന്റെ സമവാക്യത്തിൽ നിന്ന് നിങ്ങൾ ഒരു അവിഭാജ്യ സമവാക്യത്തിലേക്ക് പരിവർത്തനം ചെയ്യില്ല തുടർന്ന് ഡിഫറൻഷ്യൽ ഫോമിൽ തന്നെ നിർത്തുക തുടർന്ന് പരിഹരിക്കുക ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും അതിനാൽ ഇത് ഒരു വലിയ നേട്ടമാണ് കാരണം പച്ച ഫംഗ്ഷനുകൾ വൈവിധ്യമാർന്ന വസ്തുക്കളിൽ കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ജ്യാമിതി ഇത് FEM ന്റെ പ്രധാന പ്ലസ് പോയിന്റുകളിൽ ഒന്നാണ് സങ്കീർണ്ണമായ ആകൃതിയിലുള്ള നിരവധി വസ്തുക്കളുമായി ഇടപെടാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു അതിനാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വിമാനം പോലെ അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷൻ കണ്ടെത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡൊമെയ്ൻ തകർക്കുന്നത് ഇങ്ങനെയാണ് എന്നതിന്റെ യഥാർത്ഥ സിമുലേഷനുകളാണ് ഇവ അതിനാൽ ഇവിടെ അവർ ഈ ത്രികോണങ്ങളെ ഉപരിതലത്തിൽ ഉടനീളം ഉണ്ടാക്കി ഇവ ഒബ്ജക്റ്റിന് അനുരൂപമാണ് അതിനാൽ വസ്തുവിന്റെ ആകൃതി എടുക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സങ്കീർണ്ണമായ ഒബ്ജക്റ്റ് മെഷ് ചെയ്യാനും പ്രവർത്തിക്കാനും ഒരു സാധാരണ CAD സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു അതിനാൽ ഇത് നിങ്ങൾക്ക് ധാരാളം യഥാർത്ഥ ജീവിത പ്രവർത്തനക്ഷമത നൽകുന്നു തുടർന്ന് ഞങ്ങൾ വിശദാംശങ്ങളിലേക്ക് നോക്കുന്ന ഒന്ന് കമ്പ്യൂട്ടേഷണൽ ചെലവ് സമഗ്ര സമവാക്യ രീതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവാണ് അതിനാൽ നിങ്ങൾക്ക് സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റം ലഭിച്ചുവെന്ന് ഇന്റഗ്രൽ ഇക്വേഷൻ രീതികൾ പറയുന്നു ഇന്റഗ്രൽ ഇക്വേഷൻ രീതികൾ പരിഹരിക്കുന്നതിന്റെ സങ്കീർണ്ണത എന്തായിരുന്നു നിങ്ങളിൽ ഉള്ളവർ സമവാക്യങ്ങളുടെ ലീനിയർ ബീജഗണിത സമ്പ്രദായം ചെയ്തു അവ പരിഹരിക്കുന്നതിന്റെ സങ്കീർണ്ണത എന്താണ് അതിനാൽ സമഗ്ര സമവാക്യം ശരിയായിരുന്നു FEM ൽ ഇത് ഏതാണ്ട് ആയി മാറുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ മഹത്തായ നേട്ടം കൈവരിക്കുന്നത് ലീനിയർ നിങ്ങൾക്ക് സമവാക്യത്തിന്റെ ഒരു ലീനിയർ സിസ്റ്റം ലഭിക്കും എന്നാൽ നിങ്ങൾക്ക് കൃത്യസമയത്ത് പരിഹരിക്കാനാകും അപ്പോൾ എന്തായിരിക്കാം തന്ത്രം എ മെട്രിക്സിനോ സിസ്റ്റം മാട്രിക്സിനോ ഒരു പ്രത്യേകതയുണ്ട് അതാണ് അടുത്ത പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന സമവാക്യ സംവിധാനം യഥാർത്ഥത്തിൽ വിരളമാണ് അതിനാൽ ഈ വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷൻ എനിക്ക് എപ്പോൾ കണക്കാക്കണം എന്നതാണ് ചോദ്യം ഓരോന്നിനും നിങ്ങൾക്ക് ഒരു പോയിന്റ് ലഭിക്കുമോ എന്നതാണ് വിദ്യാർത്ഥി അതെ ഓരോന്നിന്റെയും മൂല്യം ഓരോ ത്രികോണത്തിനും ഒരു മൂല്യം ഇല്ല അതിനാൽ റഡാർ ക്രോസ് സെക്ഷൻ എന്നത് ദൂരെയുള്ള ഒരു നിരീക്ഷകന് നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഇവിടെയുള്ള എല്ലാ ചെറിയ ചെറിയ ത്രികോണങ്ങളിലും ഒരു അവിഭാജ്യഘടകമാണ് അതിനാൽ ഓരോ ചെറിയ ത്രികോണവും നിങ്ങൾ പരിഹരിക്കുന്ന ഒരു അജ്ഞാതമാണ് അത് സമവാക്യങ്ങളുടെ സമ്പ്രദായം രൂപപ്പെടുത്തുന്നു ഒടുവിൽ നിങ്ങൾക്കത് ലഭിച്ചുകഴിഞ്ഞാൽ ഈ വ്യക്തി ഒരു നമ്പർ വൺ മൂല്യം ആഗിരണം ചെയ്യുന്നു അതിനാൽ ഈ ക്രമം n ലഭിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നത് സമവാക്യങ്ങളുടെ ഈ വിരളമായ സംവിധാനമാണ് കൂടാതെ വളരെ സങ്കീർണ്ണമായ ഒരു വിമാനമോ കപ്പലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒരു യഥാർത്ഥ ജീവിതത്തെ അനുകരിക്കാനും പരിഹരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിഭാജ്യ സമവാക്യ രീതികൾ അവയുമായി പ്രവർത്തിക്കുന്നത് അസാധ്യമാണെന്ന് ഇത് നിങ്ങളോട് പറയുന്നു കാരണം അവയ്ക്ക് വളരെയധികം vs സമയമെടുക്കും അതിനാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് LU വിഘടനമോ മറ്റെന്തെങ്കിലുമോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനുള്ള ആർട്ട് ഓഫ് ആർട്ട് ഏകദേശം 2 4 പോലെയാണ് ഗവേഷണ തലത്തിലുള്ള കാര്യം അതെ അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പാഠപുസ്തകത്തിലെ കാര്യങ്ങളാണ് എന്നാൽ നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ കഴിയും എന്നാൽ അത്ര മികച്ചതല്ല അപ്പോൾ ഇന്റഗ്രൽ സമവാക്യങ്ങളുടെ കാര്യത്തിൽ സമവാക്യങ്ങളുടെ സിസ്റ്റത്തിന്റെ സംഭരണം ഒരു സിസ്റ്റം സംഭരിക്കുന്നതായിരുന്നു നിങ്ങൾക്ക് എത്ര മെമ്മറി ആവശ്യമാണ് അതിനാൽ അവിഭാജ്യ സമവാക്യങ്ങളിലെ സംഭരണം FEM ൽ എനിക്ക് വിരളമായ മാട്രിക്സ് n സമവാക്യങ്ങൾ ഉള്ളതിനാൽ ഓരോ സമവാക്യവും വിരളമാണ് എന്നതിനർത്ഥം വളരെ കുറച്ച് എൻട്രികൾ പൂജ്യമല്ല എന്നാണ് അതിനാൽ എൻട്രികളുടെ എണ്ണം വീണ്ടും FEM ആണ് അതിനാൽ സംഭരണത്തിന്റെയും കണക്കുകൂട്ടലിന്റെയും കാര്യത്തിൽ FEM ഒരു വലിയ വിജയിയാണ് അതിനാൽ ഇത് സ്വാഭാവികമായി നോക്കുമ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കണം എല്ലാം അങ്ങനെയാണെങ്കിൽ FEM നെക്കുറിച്ച് മികച്ചത് എന്തുകൊണ്ടാണ് ഈ സമഗ്ര സമവാക്യ രീതി പഠിക്കാൻ ഞങ്ങൾ ബുദ്ധിമുട്ടിയത് അതിനാൽ ഇന്റഗ്രൽ ഇക്വേഷൻ രീതികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന കൃത്യത വളരെ മികച്ചതാണ് എന്നതാണ് ഉത്തരം അതിനാൽ അതേ നിലവാരത്തിലുള്ള കൃത്യത ലഭിക്കുന്നതിന് ഇന്റഗ്രൽ ഇക്വേഷൻ രീതിയെക്കാളും എഫ്ഇഎമ്മിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് കൂടാതെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളതെന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള വളരെ നല്ല ആശയപരമായ കാരണം കാണുമെന്ന് ഞങ്ങൾ കാണും അതിനാൽ സമവാക്യങ്ങളുടെ വിരളമായ സമ്പ്രദായത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്ന വിലയാണ് സൌജന്യ ഉച്ചഭക്ഷണം ഇല്ലാതിരിക്കേണ്ടത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അതിനാൽ നിങ്ങളുടെ ഒട്ടുമിക്ക വാണിജ്യ സോഫ്റ്റ്വെയറുകളും ഉദാഹരണത്തിന് ഏറ്റവും ജനപ്രിയമായ വാണിജ്യ സോഫ്റ്റ്വെയർ ഉദാഹരണത്തിന് ANSYS അല്ലെങ്കിൽ HFSS എന്ന് വിളിക്കപ്പെടുന്ന പരിമിത മൂലക രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇപ്പോൾ ഇവിടെയും ഇവിടെയും സമഗ്രമായ സമവാക്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്ന ചില മൊഡ്യൂളുകൾ അവർക്കുണ്ട് പക്ഷേ നിങ്ങൾക്ക് വളരെ വലിയ ഇലക്ട്രിക്കൽ വസ്തുക്കളുമായി ശരിക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതി FEM ആണ് കാരണം മെമ്മറിയും വേഗതയും ന്യായമാണ്